ഇപ്പോൾ നെഗറ്റീവ് എഡ്ജ് വെയ്റ്റുകൾ അനുവദിക്കുന്ന ഗ്രാഫുകളിലെ ഏറ്റവും ചെറിയ പാതകളെക്കുറിച്ച് നമുക്ക് നോക്കാം പ്രത്യേകിച്ച് നമുക്ക് ബെൽമാൻ ഫോർഡ് അൽഗോരിതം നോക്കാം അതിനാൽ ഡിജ്സ്ക്രയുടെ അൽഗോരിതം ശരിയാക്കുന്നത് ഒരു സ്വതവേയുള്ള സ്വത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നതെന്ന് ഓർക്കുക ഞങ്ങൾ സ്വപ്രേരിതമായി കത്തിക്കുന്ന ഓരോ ശീർഷകത്തിനും അത് കത്തിക്കുന്ന സമയത്ത് കണക്കാക്കിയ ഏറ്റവും ചെറിയ പാതയുണ്ട് എന്നിരുന്നാലും നമ്മൾ കണ്ടതുപോലെ നെഗറ്റീവ് എഡ്ജ് വെയ്റ്റുകൾ ഉണ്ടെങ്കിൽ ഈ വാദം പ്രവർത്തിക്കില്ല കാരണം നമ്മൾ ഇതുവരെ കത്തിക്കാത്ത വെർട്ടെക്സിലൂടെ ഒരു പാത പിന്നീട് കണ്ടെത്തിയേക്കാം ഇത് ഞങ്ങൾ നേരത്തെ കത്തിച്ച ഒരു ശീർഷകത്തിലേക്കുള്ള ഒരു ചെറിയ പാതയായി മാറുന്നു നെഗറ്റീവ് എഡ്ജ് വെയ്റ്റുകൾ അനുവദിക്കുന്നത് ഒരു കാര്യമാണെന്നും എന്നാൽ നെഗറ്റീവ് സൈക്കിളുകൾ അനുവദിക്കുന്നത് നല്ല ആശയമല്ലെന്നും ഞങ്ങൾ പറഞ്ഞു കാരണം നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ചക്രം ലഭിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര തവണ ചുറ്റിക്കറങ്ങാം സൈക്കിളിന് ചുറ്റും ഇത് പാതയുടെ ദൈർഘ്യം ഏകപക്ഷീയമായി കുറയ്ക്കുന്നു അതിനാൽ ഹ്രസ്വമായ പാത കൃത്യമായി നിർവചിക്കപ്പെട്ട അളവ് പോലും അല്ല അതിനാൽ ഞങ്ങൾക്ക് നെഗറ്റീവ് അരികുകളുണ്ടെങ്കിലും നെഗറ്റീവ് സൈക്കിളുകളില്ലെങ്കിൽ ഹ്രസ്വമായ പാതകൾ പുറത്തുകടക്കുന്നു അവ കണക്കാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനാൽ നമുക്ക് നെഗറ്റീവ് സൈക്കിളുകൾ ഇല്ലെങ്കിൽ അരികുകൾ നെഗറ്റീവ് ആകാമോ ഇല്ലയോ എന്നത് പരിഗണിക്കാതെ ഹ്രസ്വമായ പാതകളെക്കുറിച്ചുള്ള രണ്ട് അടിസ്ഥാന ഗുണങ്ങളെക്കുറിച്ച് ആദ്യം നോക്കാം അതിനാൽ ആദ്യത്തെ പ്രോപ്പർട്ടി വളരെ വ്യക്തമാണ് അതാണ് ഒരു ഹ്രസ്വ പാത ഒരിക്കലും ഒരു ലൂപ്പിലൂടെ പോകില്ല അതിനാൽ എനിക്ക് s മുതൽ t വരെ പോകണമെന്നും ഒരേ വഴിയിൽ രണ്ടുതവണ കടന്നുപോകുമെന്നും ഞാൻ കരുതുന്നുവെന്നും കരുതുക ഇപ്പോൾ നമുക്കറിയാവുന്നത് ഇത് ഒരു ലൂപ്പാണെന്നും ഇത് ഒരു ലൂപ്പായതിനാൽ ഭാരം 0 നേക്കാൾ വലുതോ തുല്യമോ ആണെന്നതിനാൽ ഇത് നെഗറ്റീവ് ആകാൻ കഴിയില്ല കാരണം ഞങ്ങൾ നെഗറ്റീവ് ലൂപ്പുകൾ നിരസിച്ചു അതിനാൽ ഞാൻ ഈ പാത പിന്തുടർന്ന് ഈ ലൂപ്പ് കട്ട് out ട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് s മുതൽ t വരെ നേരിട്ടുള്ള പാതയുണ്ട് S മുതൽ t വരെയുള്ള നേരിട്ടുള്ള പാതയുടെ വില ഞാൻ നോക്കുകയാണെങ്കിൽ ഇതിനെക്കാൾ വലുതായിരിക്കരുത് കാരണം ഏറ്റവും മികച്ചത് ഈ ലൂപ്പിന് 0 ഉണ്ട് ഒന്നും കുറയുന്നില്ല പക്ഷേ പൊതുവേ ലൂപ്പിന് ചില നല്ല ചിലവുകളുണ്ട് മാത്രമല്ല യഥാർത്ഥത്തിൽ ചെലവ് അതിനാൽ ഹ്രസ്വമായ പാത ഒരിക്കലും വളയുന്നില്ല അതിനാൽ ഇത് ഒരിക്കലും രണ്ടുതവണ ശീർഷകം അയയ്ക്കില്ല ഇതിനർത്ഥം എനിക്ക് പരമാവധി n മൈനസ് 1 അരികുകളുണ്ടെന്നാണ് കാരണം എനിക്ക് അനുവദിക്കാൻ മാത്രമേ കഴിയൂ അതിനാൽ എനിക്ക് പൂർണ്ണമായും n വെർട്ടീസുകൾ ഉണ്ട് അതിനാൽ വഴിയിൽ എവിടെയും ആവർത്തിക്കാൻ ഒരു ശീർഷകത്തെയും ഞാൻ അനുവദിക്കുന്നില്ലെങ്കിൽ വ്യക്തമായും എനിക്ക് n മൈനസ് 1 വെർട്ടീസുകളും n മൈനസ് 1 അരികുകളും മാത്രമേ ഉണ്ടാകൂ അതിനാൽ ഹ്രസ്വമായ പാതയുടെ ദൈർഘ്യത്തിന് ഒരു പരിധിയുണ്ട് മറ്റ് സ്വത്ത് ഹ്രസ്വമായ പാത എങ്ങനെ കാണപ്പെടുന്നു എന്നത് പരിഗണിക്കാതെ തന്നെ വഴിയിൽ ഹ്രസ്വമായ പാത സൃഷ്ടിക്കുന്ന ഓരോ പാതയും ഹ്രസ്വമായ പാതയാണ് ഉദാഹരണത്തിന് എനിക്ക് ഇതുപോലുള്ള ഒരു പാത s മുതൽ t വരെ ഉണ്ട് അത് ചില ഇന്റർമീഡിയറ്റ് ലംബങ്ങളായ v 1 v 2 മുതൽ v m വരെ പോകുന്നു പിന്നെ ഞാൻ v m വരെയുള്ള പാതയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടേതാണ് s മുതൽ v m വരെയുള്ള ഏറ്റവും ചെറിയ പാത ഹ്രസ്വമായ മറ്റൊരു പാതയില്ല മറ്റൊരു ഹ്രസ്വ പാതയുണ്ടെന്ന് കരുതുക S ൽ നിന്ന് v m ലേക്ക് പോകാനുള്ള ഹ്രസ്വ മാർഗ്ഗം എന്ന് കരുതുക അപ്പോൾ എനിക്ക് ഇതും ഇതും എടുക്കാം കൂടാതെ ചുവന്ന പാത ഇപ്പോൾ പച്ച പാതയേക്കാൾ ചെറുതായിരിക്കും അതിനാൽ ഞാൻ v m വഴി t ലേക്ക് പോകുന്നുവെന്നതും ഇത് ഒരു ഹ്രസ്വമായ പാതയാണെന്നതും അർത്ഥമാക്കുന്നത് s മുതൽ v m വരെയുള്ള നമ്മുടെ ഹ്രസ്വ പാതയുടെ ഭൂരിഭാഗവും മാത്രമേ നമുക്ക് ഉണ്ടായിരിക്കൂ എന്നാണ് അതിനാൽ വീണ്ടും v 2 ന് എന്ത് സംഭവിക്കും ഇത് ഏറ്റവും ചെറിയ പാത ആയിരിക്കണം അല്ലാത്തപക്ഷം ഒരു ഹ്രസ്വ പാതയുണ്ടെങ്കിൽ ഞാൻ ആ ഹ്രസ്വ പാതയിലൂടെ പോകും അതിനുശേഷം ഞാൻ ഇതിനകം ഉള്ള ഈ പാതയിൽ ചേർക്കും കൂടാതെ എനിക്ക് ഒരു ഹ്രസ്വ പാത ലഭിക്കും v 3 മുതൽ എല്ലാത്തിനും അതിനാൽ ഒരു ഹ്രസ്വ പാതയുടെ ഓരോ പ്രിഫിക്സും ഒരു ഹ്രസ്വ പാതയാണ് അതിനാൽ നെഗറ്റീവ് എഡ്ജ് വെയ്റ്റുകളുടെ സാന്നിധ്യത്തിൽ ഹ്രസ്വമായ പാതയ്ക്കായി ബെൽമാൻ ഫോർഡ് അൽഗോരിതം എത്താൻ ഈ രണ്ട് ഗുണങ്ങളും മതി അതിനാൽ ബെൽമാൻ ഫോർഡ് അൽഗോരിതം നേടുന്നതിന് ഡിജ്സ്ക്രയുടെ അൽഗോരിതം എന്താണ് സംഭവിക്കുന്നതെന്ന് കുറച്ചുകൂടി വിശകലനം ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഡിജ്സ്ക്രയുടെ അൽഗോരിതം ഞങ്ങൾ ഒരു വെർട്ടീസുകൾ കത്തിക്കുമ്പോഴെല്ലാം ഞങ്ങൾ സന്ദർശിക്കുമ്പോഴെല്ലാം ഞങ്ങൾ അയൽക്കാർ എല്ലാം അപ്ഡേറ്റുചെയ്യുന്നു അതിനാൽ നമ്മൾ ഒരു വെർട്ടീസസ് ബേൺ ചെയ്യുമ്പോൾ a യുടെ ദൂരം ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു ഓരോ അരികിലും ഞങ്ങൾ j k അപ്ഡേറ്റ് ചെയ്യുന്നു k ലേക്ക് ദൂരം ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു അതിനാൽ നമുക്ക് ജെയിലൂടെ പുതുതായി കണ്ടെത്തിയ ദൂരം ഉണ്ടായിരിക്കാം ഞങ്ങൾക്കറിയാവുന്ന ദൂരവുമായി ഇത് താരതമ്യം ചെയ്യുകയും ഞങ്ങൾ ഡിജ്സ്ക്രയുടെ അൽഗോരിതം ചെറുതായി സൂക്ഷിക്കുകയും ചെയ്യുന്നു അതിനാൽ ഈ പ്രവർത്തനത്തെ ഒരു അപ്ഡേറ്റ് എന്ന് വിളിക്കാം അത് j ൽ നിന്ന് k അപ്ഡേറ്റുചെയ്യുന്നു അതിനാൽ ഡിജ്സ്ക്രയുടെ അൽഗോരിതം ഞങ്ങൾ ജെ ബേൺ ചെയ്യുമ്പോൾ മാത്രമേ ഞങ്ങൾ ഈ അപ്ഡേറ്റ് ചെയ്യുകയുള്ളൂ കൂടാതെ ഡിജ്സ്ക്രയുടെ അൽഗോരിത്തിന്റെ കൃത്യത പറയുന്നു j യിലേക്കുള്ള ദൂരം j ലേക്ക് ശരിയായ ദൂരം അതിനാൽ നമ്മൾ കണ്ടത് നെഗറ്റീവ് എഡ്ജ് വെയ്റ്റ് കേസിൽ ഞങ്ങൾ ഡിജ്സ്ക്രയുടെ അൽഗോരിത്തിന്റെ തന്ത്രം ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ഇതായിരിക്കില്ല കാരണം ഒരു വെർട്ടീസുകൾ ബേൺ ചെയ്യും കാരണം അത് അൺബർട്ട് വെർട്ടീസുകളിൽ പ്രതീക്ഷിക്കുന്ന ദൂരം കുറവാണെന്ന് ഉറപ്പുനൽകുന്നില്ല ചെറിയ ദൂരത്തിൽ പിന്നീട് കണ്ടെത്തിയേക്കാവുന്ന ശരിയായ ദൂരമാണിത് ഇതൊക്കെയാണെങ്കിലും ഈ അപ്ഡേറ്റ് പ്രവർത്തനത്തിന് ഞങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന ചില ഉപയോഗപ്രദമായ ഗുണങ്ങളുണ്ട് അതിനാൽ നിർണായകമായ കാര്യം ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് k യിലേക്കുള്ള ദൂരം നമുക്ക് ഇതിനകം തന്നെ ഉണ്ട് എന്നതിന്റെ ചില അതിർവരമ്പുകൾ നൽകുന്നു അതിനാൽ ഏത് ഘട്ടത്തിലും നമുക്ക് ഉള്ള മാറ്റമില്ലാത്തത് നമുക്ക് k ലേക്ക് ദൂരമുള്ള മൂല്യം അതിലും വലുതാണ് അല്ലെങ്കിൽ ഉറവിടത്തിൽ നിന്ന് കെയിലേക്കുള്ള യഥാർത്ഥ ഹ്രസ്വ ദൂരത്തിന് തുല്യമാണ് തുടക്കത്തിൽ ഇത് അനന്തമാണെന്ന് ഞങ്ങൾ അനുമാനിക്കാം അതിനാൽ അത് യഥാർത്ഥ ഹ്രസ്വ ദൂരത്തേക്കാൾ വലുതാണ് ഏത് സമയത്തും ഞങ്ങൾ അത് കുറയ്ക്കുമ്പോൾ ഞങ്ങൾ അത് കുറയ്ക്കുന്നു കാരണം ഞങ്ങൾക്ക് ഒരു കോൺക്രീറ്റ് പാത കണ്ടെത്തി അത് ഞങ്ങൾക്ക് കുറഞ്ഞ ദൂരം നൽകുന്നു അതിനാൽ ഈ അപ്ഡേറ്റിന് ശേഷം ഞങ്ങൾ ഇത് ചെയ്യുമ്പോൾ k ലേക്കുള്ള ദൂരം j വഴി നാം കണ്ടെത്തിയ ദൂരത്തേക്കാൾ കൂടുതലല്ലെന്ന് നമുക്കറിയാം കാരണം ഇത് ഇതിനകം കുറവാണെങ്കിൽ ഞങ്ങൾ അത് അങ്ങനെ തന്നെ സൂക്ഷിക്കുന്നു കാരണം മുമ്പത്തെ ജെ പ്രൈമിലൂടെ ഞങ്ങൾ ഇത് കണ്ടെത്തി അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഇത് കണ്ടെത്തി ഈ സാഹചര്യത്തിൽ ഈ അപ്ഡേറ്റ് പ്രവർത്തനത്തിൽ ഞങ്ങൾ ഇത് അപ്ഡേറ്റുചെയ്തു ഹ്രസ്വമായ പാതകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ മുമ്പത്തെ നിരീക്ഷണം ഇതിനർത്ഥം യഥാർത്ഥത്തിൽ ഡിജ്സ്ക്രയുടെ അൽഗോരിതം ആണെങ്കിൽ ദൂരം j യഥാർത്ഥത്തിൽ ശരിയാണെങ്കിൽ ഏറ്റവും ചെറിയ പാത ഇപ്പോൾ ഈ എഡ്ജ് ചേർക്കുന്നതാണ് ഞങ്ങൾ അതിനെ ആദരവോടെ ക്ലെയിം ചെയ്യുന്നില്ല ഇത് ഏറ്റവും ചെറിയ പാതയാണെങ്കിൽ k യിലേക്കുള്ള ദൂരം ശരിയായി കണക്കാക്കും അതിനാൽ യഥാർത്ഥത്തിൽ ഈ അപ്ഡേറ്റ് പ്രവർത്തനം ഒരു സുരക്ഷിത പ്രവർത്തനമാണ് കാരണം ഇത് ഒരിക്കലും k യുടെ ദൂരം യഥാർത്ഥ മൂല്യത്തിന് താഴെയാക്കില്ല അതിനാൽ അത് എല്ലായ്പ്പോഴും നമുക്ക് ആവശ്യമുള്ള മൂല്യം സ്വീകരിക്കും അതിനാൽ ഞങ്ങൾക്ക് ഫോറിയർ അപ്ഡേറ്റുകൾ ചെയ്യുന്നത് തുടരാം അതിനാൽ അനാവശ്യ അപ്ഡേറ്റുകൾ ഇത് ഞങ്ങളെ വേദനിപ്പിക്കുന്നില്ല അതിനാൽ അനാവശ്യ അപ്ഡേറ്റുകൾക്ക് ഈ കണക്കുകൂട്ടൽ അംഗീകരിക്കാൻ കഴിയില്ല അത് പുരോഗതി കൈവരിക്കില്ലായിരിക്കാം പക്ഷേ കുറഞ്ഞ ചെലവ് വീണ്ടെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് അത് ഞങ്ങളെ അയയ്ക്കില്ലായിരിക്കാം കാരണം ഞങ്ങൾ എല്ലായ്പ്പോഴും പ്രവർത്തിക്കുകയോ മിനിമം ചിലവ് സ്വീകരിക്കുകയോ ചെയ്യുന്നു അതിനാൽ ഞങ്ങൾ ഒരു മിനിറ്റ് ചെയ്യുമ്പോഴെല്ലാം ഞങ്ങൾ എല്ലായ്പ്പോഴും താഴേക്കിറങ്ങും പക്ഷേ ഞങ്ങൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥ മൂല്യത്തിന് താഴെയായി പ്രോസസ്സ് ചെയ്യുന്നില്ല അതിനാൽ നിങ്ങൾ ഡിജ്സ്ക്രയുടെ അൽഗോരിതം നോക്കുകയാണെങ്കിൽ അത് ചെയ്യുന്നത് അത്യാഗ്രഹപരമായ അപ്ഡേറ്റുകളുടെ ഒരു പ്രത്യേക ശ്രേണിയാണ് അത് കത്തിക്കാത്തതും ചെറുതാക്കാത്തതുമായ ഏറ്റവും ചെറിയ ദൂരം തിരഞ്ഞെടുക്കുന്നു തെളിവ് തകരുന്നു കാരണം ഈ ശ്രേണി പൊരുത്തപ്പെടുന്നില്ല ഞങ്ങൾക്ക് നൽകൂ വഴികൾ നെഗറ്റീവ് ആകാമെങ്കിൽ ഒരു ഹ്രസ്വ പാത അതിനാൽ ഏറ്റവും ഹ്രസ്വമായ പാത ലഭിക്കുന്നതിന് ഞാൻ അപ്ഡേറ്റുകളുടെ ക്രമം എന്തുചെയ്യണം എന്നതാണ് സ്വാഭാവിക ചോദ്യം ഡിജ്സ്ക്രയുടെ അൽഗോരിത്തിന്റെ 3D ഹ്യൂറിസ്റ്റിക്സ് വഴി പോകുന്നതിനേക്കാൾ അപ്ഡേറ്റുകളുടെ ക്രമം കണക്കുകൂട്ടുന്നതിനുള്ള മികച്ച മാർഗമുണ്ടോ അതിനാൽ നമുക്ക് s t എന്നീ രണ്ട് ലംബങ്ങളുണ്ടെന്ന് കരുതുക s മുതൽ t വരെയുള്ള ഏറ്റവും ചെറിയ പാത കണ്ടെത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതാണ് ഏറ്റവും ചെറിയ പാതയെന്ന് കരുതുക അത് ഞാൻ മുമ്പ് കണ്ട v m ലേക്ക് പോകണം ഇപ്പോൾ ഈ ക്രമത്തിൽ ഞങ്ങൾ അപ്ഡേറ്റുകൾ ചെയ്താൽ ആദ്യം അപ്ഡേറ്റുകൾ s ൽ നിന്നും 1 ആയി കണക്കാക്കുന്നു തുടർന്ന് ഞങ്ങൾ v 1 മുതൽ v 2 വരെ കണക്കുകൂട്ടുന്നു തുടർന്ന് v 2 മുതൽ v 3 വരെ കണക്കുകൂട്ടുന്നു അതിനിടയിൽ നമുക്ക് മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അത് ഈ ശ്രേണിയിൽ ഈ അപ്ഡേറ്റുകൾ സംഭവിക്കുന്നുവെങ്കിൽ v 3 മുതൽ v 4 വരെയും അങ്ങനെ ഒടുവിൽ ഞങ്ങൾ vm to t ചെയ്യുന്നു S വരെയുള്ള ദൂരം നിങ്ങൾ കൃത്യമായി കണക്കുകൂട്ടിയിട്ടുണ്ടെങ്കിൽ ഈ അപ്ഡേറ്റ് v 1 ന്റെ ദൂരം ശരിയായി കണക്കുകൂട്ടും കാരണം ഇത് രണ്ടാമത്തെ നോഡാണ് അതിനാൽ j യുടെ ദൂരം ശരിയാണെങ്കിൽ k യിലേക്കുള്ള ഏറ്റവും ചെറിയ പാത ആണെങ്കിൽ j രണ്ടാമത്തെ അവസാന നോഡാണെങ്കിൽ k ന്റെ ദൂരം അപ്ഡേറ്റിന് ശേഷം ശരിയാണ് അതിനാൽ s ന്റെ ദൂരം 0 ന് താഴെയായിരുന്നതിനാൽ sv 1 അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇത് ദൂരം ശരിയാകുന്നു ഇപ്പോൾ അപ്ഡേറ്റുകൾ ഞങ്ങളെ ശല്യപ്പെടുത്തുന്നില്ലേയെന്നും ഞങ്ങൾ ശരിയാക്കാം പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വി 2 ലേക്ക് വരുമ്പോൾ വി 1 ൽ നിന്നും വി 2 അപ്ഡേറ്റ് ചെയ്യും കൂടാതെ വി 1 ഈ ഹ്രസ്വ പാതയിലെ രണ്ടാമത്തെ അവസാന പാതയാണ് അതിനാൽ ഇതും ശരിയായ മൂല്യമായി മാറുന്നു തുടർന്ന് ഇതും ശരിയായ മൂല്യമായി മാറുന്നു അതിനാൽ ഈ എല്ലാ അപ്ഡേറ്റുകളുടെയും മധ്യത്തിൽ അപ്ഡേറ്റുകളുടെ ഈ പ്രത്യേക ഉപ ശ്രേണി s 1 മുതൽ v 1 വരെയും v 1 മുതൽ v 2 വരെയും v 2 മുതൽ v 3 വരെയും തിരിച്ചറിഞ്ഞാൽ നമ്മൾ എത്ര ദൂരം ആയിരിക്കും അതിനാൽ s t എന്നിവയ്ക്കായുള്ള അപ്ഡേറ്റുകളുടെ ഈ ശ്രേണി ഞങ്ങളുടെ പക്കലുണ്ടെന്ന് എങ്ങനെ ഉറപ്പാക്കാം എന്നതാണ് ഇപ്പോൾ ചോദ്യം അതിനാൽ ബെൽമാൻ ഫോർഡ് അൽഗോരിതം അടിസ്ഥാനപരമായി പറയുന്നത് നിങ്ങളുടെ പ്രത്യേക ശ്രേണി കണ്ടെത്തുന്നതിനായി എഴുതരുത് സാധ്യമായ എല്ലാ ശ്രേണിയിലും അപ്ഡേറ്റുകൾ ഉണ്ടെന്ന് കണക്കുകൂട്ടുക അതിനാൽ ഉയർന്ന തലത്തിൽ ഇത് പറയുന്ന അൽഗോരിതം തുടക്കത്തിൽ s ന്റെ ദൂരം 0 ആയും യുവിന്റെ ദൂരം മറ്റെല്ലാ ശീർഷകങ്ങൾക്കും അനന്തമായിരിക്കണമെന്നും പറയുന്നു ഇപ്പോൾ ഞങ്ങൾ എല്ലാ അപ്ഡേറ്റുകളും n മൈനസ് 1 തവണ അന്ധമായി ചെയ്യുന്നു അതിനാൽ ഞങ്ങൾ ചെയ്യുന്നത് തുടക്കത്തിൽ നിങ്ങൾ ഓരോ അരികിലും അപ്ഡേറ്റുചെയ്യുന്നു കാരണം 0 ദൂരവും യു അനന്തവുമാണ് അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാം അപ്ഡേറ്റുചെയ്യുന്നു അതിനാൽ ഈ അപ്ഡേറ്റുകളെല്ലാം s സോഴ്സ് വെർട്ടെക്സും v ടാർഗെറ്റ് വെർട്ടെക്സും ആണ് ഇവ ഇപ്പോൾ ഈ മാർഗ്ഗങ്ങൾക്കായി ചില പരിമിത മൂല്യങ്ങൾ നൽകും ഇവിടെ ഇവ അനന്തമായി തുടരും അതിനാൽ ഇത് പരിമിതമാവുകയും ഇവ അനന്തമായിത്തീരുകയും ചെയ്യും ഇപ്പോൾ നിങ്ങൾ ഒരു പൂർണ്ണമായ അപ്ഡേറ്റുകൾ ചെയ്തു അതിൽ മറ്റെല്ലാവരും അയൽവാസികൾക്ക് ഇപ്പോൾ ചില പരിമിത മൂല്യങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഇത് വീണ്ടും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ ഓരോ j k യും അപ്ഡേറ്റ് ചെയ്യുകയും ഓരോ j k യും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോൾ n n മൈനസ് 1 അരികുകളിലുള്ള ഏതൊരു രണ്ട് ലംബങ്ങൾക്കും ഇടയിലുള്ള ഏറ്റവും ചെറിയ പാതയാണെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഞങ്ങൾ ഇത് മൈനസ് 1 തവണ ചെയ്താൽ എനിക്ക് അപ്ഡേറ്റുകളുടെ ഏതെങ്കിലും ശ്രേണി വേണമെങ്കിൽ അപ്ഡേറ്റുകളുടെ ക്രമം ഇതുപോലെയായിരിക്കാമെന്നും അല്ലെങ്കിൽ n മൈനസ് 1 അപ്ഡേറ്റുകളുടെ ഏതെങ്കിലും ശ്രേണി നിയമപരമാണെന്നും കണ്ടെത്താം ഈ സാഹചര്യത്തിൽ പാത്ത് പ്രതിനിധീകരിക്കും അതിനാൽ ഇത് വളരെ ബുദ്ധിമാനായ ഒരു മാട്രിക്സാണ് ഒരു ആവർത്തനത്തിന് ശേഷം എല്ലാ അപ്ഡേറ്റുകളും രണ്ട് ആവർത്തനങ്ങൾക്ക് ശേഷമുള്ള എല്ലാ അപ്ഡേറ്റുകളും അല്ലെങ്കിൽ അപ്ഡേറ്റ് ഇ 1 ലേക്ക് ഒരു പ്രത്യേക ശ്രേണി ആവശ്യപ്പെടുന്നതിന് തുടർന്ന് ഇ 2 അപ്ഡേറ്റ് ചെയ്യുക തുടർന്ന് അപ്ഡേറ്റ് ചെയ്യുക തുടർന്ന് ഞാൻ ഇവിടെ ഇ 1 കണ്ടെത്തും തുടർന്ന് ഞാൻ ഇവിടെ ഇ 2 നോക്കും തുടർന്ന് ഞാൻ ഇവിടെ ഇ 3 കണ്ടെത്തും അതിനാൽ സാധ്യമായ എല്ലാ പാതകളും പ്രത്യേകമായി നൽകിയിരിക്കുന്നു ഇവിടെയുള്ള ശരാശരി ഉദാഹരണം പാതയിൽ നിന്ന് s മുതൽ v 1 വരെയും v 1 മുതൽ v 2 വരെയും പോകുന്നു ആദ്യത്തെ അപ്ഡേറ്റുകൾ ആവർത്തനം 1 ൽ വരുന്നതായി ഞങ്ങൾ കണ്ടെത്തി തുടർന്ന് വി 1 അപ്ഡേറ്റുചെയ്തതിനുശേഷം അടുത്ത ആവർത്തനം v 1 v 2 എന്നത് v 2 ലേക്ക് ശരിയായ ദൂരമായിരുന്നു ആവർത്തനം 3 v 2 മുതൽ v 3 വരെ നൽകും അവസാനമായി ആവർത്തനം n മൈനസ് 1 യഥാർത്ഥത്തിൽ ഇത് n മൈനസ് 1 ആയിരിക്കില്ല ഈ പാതയുടെ ദൈർഘ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഈ പാത യഥാർത്ഥത്തിൽ അവസാനത്തെ n മൈനസ് 1 ഘട്ടങ്ങളായി നമുക്ക് vm മുതൽ t വരെയുള്ള അപ്ഡേറ്റും t നെക്കുറിച്ചുള്ള ശരിയായ ദൂരവും നൽകുമെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ഇതിലും കുറവായിരിക്കാം n n മൈനസ് 1 അത് പാത്ത് കുറവായിരിക്കും കുറഞ്ഞ നീളം അതിനാൽ അൽഗോരിതം യഥാർത്ഥത്തിൽ വളരെ ലളിതമാണ് നിങ്ങൾ ഒരു ഉറവിട ശീർഷകത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് അതിനാൽ തുടക്കത്തിൽ നിങ്ങൾ ഓരോ ശീർഷകത്തിനും അനന്തമായിരിക്കാനുള്ള ദൂരം നിർണ്ണയിക്കുകയും s ന്റെ ദൂരം 0 ആയി ആരംഭിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ മൈനസ് 1 തവണ നിങ്ങളുടെ ഗ്രാഫിലെ ഓരോ അരികിലും ഇനിപ്പറയുന്ന പ്രവർത്തനം അന്ധമായി ആവർത്തിക്കുന്നു അതിനാൽ നിങ്ങൾ ആ എഡ്ജിന്റെ ടാർഗറ്റിന്റെ ദൂരം ആ ടാർഗറ്റിന്റെ നിലവിലെ ദൂരത്തിന്റെ ഏറ്റവും ചുരുങ്ങിയത് അല്ലെങ്കിൽ എഡ്ജിന്റെ ഉറവിടത്തിലേക്കുള്ള ദൂരവും അരികിലെ ഭാരവും കണക്കാക്കുന്നു അതിനാൽ ഇത് ഈ മൈനസിലേക്ക് 1 തവണ അന്ധമായി കാണുകയും സാധുവായ ഓരോ ഹ്രസ്വ പാതയ്ക്കും നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന ഈ പ്രോപ്പർട്ടി കാരണം നിങ്ങൾ ഇവിടെ കമ്പ്യൂട്ടിംഗ് നടത്തുന്ന ഈ ശ്രേണിയിൽ ആ പാതയുമായി പൊരുത്തപ്പെടുന്ന അപ്ഡേറ്റുകളുടെ ക്രമം നിങ്ങൾ കണ്ടെത്തും നിങ്ങൾ ചെയ്യും s മുതൽ ആരംഭിക്കുന്ന മറ്റെല്ലാ ശീർഷകങ്ങളിലേക്കും എപ്പോഴും ഹ്രസ്വമായ പാത നേടുക അതിനാൽ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം ബെൽമാൻ ഫോർഡ് അൽഗോരിതം യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം അതിനാൽ ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ട് അതിന് കുറച്ച് സൈക്കിളുകളുണ്ട് അതിന് കുറച്ച് നെഗറ്റീവ് വെയ്റ്റുകളുണ്ട് പക്ഷേ നെഗറ്റീവ് സൈക്കിളുകളൊന്നുമില്ല ഉദാഹരണത്തിന് ഇവിടെ നമുക്ക് ഭാരം മൈനസ് 2 പ്ലസ് 1 ഉം മൈനസ് 1 പ്ലസ് 2 പ്ലസും ഉള്ള ഒരു സൈക്കിളുകൾ ഉണ്ടെന്ന് കാണാം അതുപോലെ ഇവിടെ നമുക്ക് 6 മുതൽ 3 മുതൽ 4 മുതൽ 5 വരെ ഭാരം വരുന്ന ഒരു സൈക്കിൾ ഉണ്ട് നമുക്ക് മൈനസ് 2 പ്ലസ് 1 മൈനസ് 1 പ്ലസ് 3 പ്ലസ് 2 മൈനസ് 1 പ്ലസ് 1 ആണ് അതിനാൽ ഇത് വീണ്ടും സൈക്കിൾ അല്ലെങ്കിൽ പ്ലസ് 1 ആണ് അതിനാൽ നെഗറ്റീവ് വെയ്റ്റുകൾ ഉണ്ട് പക്ഷേ നെഗറ്റീവ് സൈക്കിളുകളൊന്നുമില്ല ഇപ്പോൾ ഇതിൽ 1 മുതൽ മറ്റെല്ലാ ലംബങ്ങളിലേക്കും ഹ്രസ്വമായ പാതകൾ കണക്കുകൂട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ അതിലൊന്നാണ് ഉറവിട ലംബങ്ങൾ അതിനാൽ ഞങ്ങൾ ഈ ആവർത്തനങ്ങൾ സജ്ജമാക്കി അതിനാൽ പ്രാരംഭ ഘട്ടത്തിൽ ഞങ്ങൾ 1 മുതൽ 0 വരെയുള്ള വെർട്ടിക്സിന്റെ ദൂരവും മറ്റെല്ലാം അനന്തമായി പറഞ്ഞു ഇപ്പോൾ ആദ്യ ഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന എല്ലാ അയൽക്കാരെയും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കും ഇപ്പോൾ അനന്തമായ എല്ലാ മൂല്യങ്ങളും അയൽക്കാരെ അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നാൽ മൂല്യം 1 ന് 2 അയൽക്കാർ 2 മാത്രമേ ഉണ്ടാകൂ അതിനാൽ കാര്യങ്ങൾ ഇപ്പോൾ പരിമിതമായ മൂല്യങ്ങളായി മാറേണ്ടതുണ്ട് തുടർന്ന് പ്രതീക്ഷിച്ചതാണ് ഇപ്പോൾ നമുക്ക് ഈ മൂന്ന് ലംബങ്ങളുണ്ട് അവ രണ്ടും പരിമിത മൂല്യങ്ങളാണ് അതിനാൽ അയൽക്കാർക്ക് 7 ഉം 2 ഉം അയൽവാസികളുണ്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിനാൽ 2 ൽ നിന്ന് 6 മാത്രമാണ് 8 മുതൽ 7 വരെ out ട്ട് ഗോയിംഗ് എഡ്ജ് അതിനാൽ 7 ഉം 6 ഉം അപ്ഡേറ്റ് ചെയ്യപ്പെടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അടുത്ത ഘട്ടത്തിൽ 6 7 എന്നിവ മൂല്യങ്ങളിൽ നിന്ന് അപ്ഡേറ്റുചെയ്ത മൂല്യങ്ങൾ കണ്ടെത്തുക അതിനാൽ 8 പ്ലസ് 1 9 10 പ്ലസ് 2 12 ആണ് ഇപ്പോൾ ഇത് ലഭിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ 1 2 8 7 6 എന്നിവ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും ഇപ്പോൾ എനിക്ക് മറ്റൊരു പാത ഉണ്ടെന്ന് ശ്രദ്ധിക്കുക 1 മുതൽ 2 വരെയുള്ള ഈ പാതയ്ക്ക് ഇത് പോകുന്ന ഒരു പാത ഉണ്ടായിരിക്കില്ല മൈനസ് 4 കാരണം ഇത് 1 മുതൽ 2 വരെ 7 ലേക്ക് പോകുകയും ഇത് ഒരു ചെറിയ പാതയായി മാറുകയും ചെയ്യുന്നു അതിനാൽ ഈ ആവർത്തനത്തിൽ ഞാൻ യഥാർത്ഥത്തിൽ നിസ്സാരമല്ലാത്ത ആദ്യത്തെ അപ്ഡേറ്റ് കണ്ടെത്തും ഇത് സാധ്യമായ എല്ലാ നിസ്സാരമായ ലംബങ്ങളും അല്ലെങ്കിൽ മാറ്റമില്ലാത്തത് അതിനാൽ ഇതിനകം 10 കണക്കാക്കിയ രണ്ട് ദൂരം യഥാർത്ഥത്തിൽ മാറും തീർച്ചയായും 6 ന്റെ 6 പുതിയ അയൽക്കാർ ഉള്ളതിനാൽ ഇപ്പോൾ 3 ന് ഒരു പുതിയ മൂല്യം നൽകും അതിനാൽ ഈ ആവർത്തനത്തിൽ ഞാൻ പുന reset സജ്ജീകരണം കണ്ടെത്തി എന്നാൽ 2 ന്റെ മൂല്യം മൂന്നിന്റെ മൂല്യം കുറയ്ക്കുന്നു 6 ന്റെ മൂല്യം മാറുന്നത് ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് മുമ്പ് നമ്മൾ ഇതുപോലുള്ള ഒരു പാതയിലേക്ക് നോക്കുന്നത് ഇപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള ഒരു മികച്ച പാതയാണെന്ന് ഞങ്ങൾ കണ്ടെത്തി ഇത് ആനുകൂല്യത്തിന് ഒരു നെഗറ്റീവ് എഡ്ജ് ഉണ്ട് അതിനാൽ ഞങ്ങൾ 12 മുതൽ 8 വരെ താഴുന്നു പ്ലസ് 1 മൈനസ് 8 ആണ് അതിനാൽ അടുത്ത ഘട്ടത്തിൽ 3 ലേക്ക് പോകാനുള്ള പാത കൂടുതൽ ചുരുങ്ങുന്നു കാരണം ഇപ്പോൾ 6 ന് മികച്ച പാത ലഭിക്കുന്നു അതിനാൽ മുമ്പത്തെ പാതയിൽ ഞങ്ങൾ പറഞ്ഞു 6 പ്ലസ് 12 12 മൈനസ് 2 എന്നിവയ്ക്കുള്ള പാത 10 ആയിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഇത് പോയി 12 അല്ല 8 ആണെന്ന് പറഞ്ഞു അതിനാൽ 8 മൈനസ് 2 യഥാർത്ഥത്തിൽ 6 ആണ് അതിനാൽ നിങ്ങൾക്ക് 3 ലേക്ക് മികച്ച പാത ലഭിച്ചു ഞങ്ങൾ പുതിയതായി കണ്ടെത്തി പാത്ത് കാരണം 10 പ്ലസ് 1 ൽ നിന്ന് 3 ലേക്ക് ഒരു പാത 11 ഉം മറ്റും അതിനാൽ ഞങ്ങൾ ഒരു പടി കൂടി തുടരുന്നു കാരണം ഇപ്പോൾ 4 എത്തിച്ചേരാമെന്നും 11 ഘട്ടങ്ങൾ 4 പ്ലസ് 3 14 ആണെന്നും നമുക്കറിയാം അതിനാൽ 5 എത്തിച്ചേരാനാകും എന്നാൽ 4 ഇപ്പോൾ തന്നെ 3 ന്റെ മൂല്യം അപ്ഡേറ്റുചെയ്തു അതിനാൽ ഈ ആവർത്തനത്തിൽ 3 ന്റെ മൂല്യം 11 മുതൽ 7 വരെ അപ്ഡേറ്റ് ചെയ്യപ്പെടും ഇത് ഒരു ആവർത്തനത്തിനുശേഷം കൂടി പ്രചരിപ്പിക്കും അതിനാൽ ഇപ്പോൾ ഈ മൂല്യം 14 ൽ നിന്ന് 7 പ്ലസ് 3 ആയി കുറയുന്നു എന്നാൽ ഈ പ്രക്രിയയിൽ സംഭവിച്ചത് 3 ന്റെ മൂല്യത്തിലാണ് അത് ഒരു തവണ കൂടി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ int ന്റെ മൂല്യം വീണ്ടും 4 ന്റെ മൂല്യം കുറയ്ക്കുന്നു ഒടുവിൽ n മൈനസ് 1 ആവർത്തനത്തിനുശേഷം നമുക്ക് ഒരു സ്റ്റേബിൾ സെറ്റ് മൂല്യങ്ങൾ ലഭിക്കും അതിനാൽ ഈ ആരംഭ വെർട്ടെക്സ് 1 ൽ നിന്നുള്ള എല്ലാ ലംബങ്ങളിലേക്കുമുള്ള ഏറ്റവും ചെറിയ പാതകളായി ഇത് മാറുന്നു അതിനാൽ ഈ അൽഗോരിത്തിന്റെ സങ്കീർണ്ണത എന്താണ് ഈ ബാഹ്യ ലൂപ്പ് എവിടെയായിരിക്കും അതിനാൽ ഞങ്ങൾ ഈ അപ്ഡേറ്റ് n മൈനസ് 1 തവണ പ്രവർത്തിപ്പിക്കും അതിനാൽ ഇത് ഓർഡർ n തവണ പ്രവർത്തിപ്പിക്കണം ഇപ്പോൾ ഓരോ ലൂപ്പും അടിസ്ഥാനപരമായി എല്ലാ അരികുകളും അന്ധമായി അപ്ഡേറ്റുചെയ്യുന്നു അതിനാൽ ഞങ്ങൾക്ക് ഒരു സമീപസ്ഥ മാട്രിക്സ് ഉണ്ട് ഞങ്ങൾ ഒരു എൻട്രി കാണുന്നിടത്തെല്ലാം എല്ലായിടത്തും ഒരേയൊരു അടിസ്ഥാന രൂപം ഞങ്ങൾ തിരിച്ചറിയണം ഞങ്ങൾ അപ്ഡേറ്റുചെയ്തു പക്ഷേ ഒരു സമീപസ്ഥല പട്ടികയിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള അരികുകൾ ഉണ്ട് അതിനാൽ നമുക്ക് 1 വരെ 2 n വരെ ഉണ്ട് ഞങ്ങൾക്ക് കൃത്യമായി അരികുകളുണ്ട് അതിനാൽ നമുക്ക് ഈ അപ്ഡേറ്റ് ചെയ്യാനും ഓർഡർ ചെയ്യാനും കഴിയും അതിനാൽ ഞങ്ങൾ സമീപസ്ഥല മാട്രിക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ n ചതുരശ്ര സമയത്തിന്റെ ഓർഡറിന്റെ അറ്റങ്ങൾ ഏതെന്ന് തിരിച്ചറിയുക കാരണം ഓരോ എൻട്രിയും ഞങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ മൊത്തത്തിൽ അഡ്ജെൻസി മാട്രിക്സ് പ്രാതിനിധ്യം ഉപയോഗിക്കുകയാണെങ്കിൽ ഫോർഡ് അൽഗോരിതം n ക്യൂബ് സമയമെടുക്കും അതേസമയം സമീപസ്ഥല ലിസ്റ്റ് പ്രാതിനിധ്യത്തിൽ നമുക്ക് അത് m n ആയി കുറയ്ക്കാൻ കഴിയും അതിനാൽ അരികുകളുടെ എണ്ണം ചെറുതാണ് അത് n ക്യൂബിനേക്കാൾ മികച്ച പരിഹാരമാകും